ഏഴാം ആഴ്ചയിലേക്ക് സ്വാഗതം ഇത് ആഴ്ചയിലെ മൂന്നാം ഭാഗമാണ് ഈ ക്ലാസ്സിൽ ഈ വിഭാഗത്തിൽ ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകളിലെ ഫിഷിംഗ് ആക്രമണങ്ങളെക്കുറിച്ച് നമുക്ക് കാണാം അതിനാൽ ഇത് ഒരു എംഐടി പിഎച്ച്ഡി തീസിസിൽ നിന്നുള്ള ഒരു സ്ലൈഡാണ് യഥാർത്ഥത്തിൽ ഒരു സെമാന്റിക് ആക്രമണം എന്താണെന്ന് ഇത് കാണിക്കുന്നു സെമാന്റിക് ആക്രമണങ്ങൾ മനുഷ്യരെ ലക്ഷ്യമിടുന്ന ആക്രമണങ്ങളാണ് ഉദാഹരണത്തിന് സുരക്ഷയിൽ വിദഗ്ദ്ധനെന്ന് കരുതപ്പെടുന്ന ബ്രൂസ് ഷ്നേയർ ശാരീരികവും വാക്യഘടനയും അർത്ഥപരവുമായ പല തരത്തിലുള്ള ആക്രമണങ്ങളെ തരംതിരിച്ചു 15 20 വർഷങ്ങൾക്ക് മുമ്പ് ശാരീരിക ആക്രമണങ്ങൾ നടന്നിരുന്നു ഇവിടെ ആക്രമണകാരികൾക്ക് യഥാർത്ഥത്തിൽ മെഷീനിലേക്ക് പ്രവേശനം ലഭിക്കും അതേസമയം സെമാന്റിക് ആക്രമണങ്ങൾ പ്രോഗ്രാമുകൾക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ നിർമ്മിച്ച സിസ്റ്റങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ആക്രമണങ്ങളാണ് ഇത് സേവന നിഷേധം ആക്രമണങ്ങൾ ബഫർ ഓവർഫ്ലോ ആക്രമണങ്ങൾ അതുപോലുള്ള ആക്രമണങ്ങൾ പോലെയാണ് സെമാന്റിക് ആക്രമണങ്ങൾ എന്നത് നമ്മൾ മനുഷ്യർ എന്ന നിലയിൽ ഉള്ളടക്കത്തിന് അർത്ഥം നൽകുന്ന രീതി ലക്ഷ്യമിടുന്ന ആക്രമണങ്ങളാണ് കാരണം നമ്മൾ സംസാരിക്കുന്ന നിർദ്ദിഷ്ട ആക്രമണം ഫിഷിംഗ് ആണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ പികെഐഐറ്റിടി in ൽ നിന്ന് ഒരു ഇമെയിൽ ലഭിക്കുന്നുവെന്ന് കരുതുക അതിൽ എൻ പി ടി ഇ എൽ കോഴ്സിനെക്കുറിച്ച് സംസാരിക്കുന്ന ഉള്ളടക്കം കാണാൻ ദയവായി നിങ്ങളുടെ യൂസർ നെയിം ഉം പാസ്വേഡും നൽകുക ഇവിടെ മിക്കവാറും നിങ്ങൾ ലിങ്കിൽ ക്ലിക്കുചെയ്ത് ഒരു വിവരങ്ങൾ നൽകും അതിനാൽ പികെഐഐറ്റിടി ൽ നിന്ന് നിയമാനുസൃതമായി വരുന്ന ഒരു ഇ മെയിൽ നിങ്ങൾ കാണുന്നുവെന്ന് നിങ്ങൾ കരുതുന്നു കൂടാതെ എൻ പി ടി ഇ എൽ ഡോട്ട് കോം സ്ലാഷ് ലോഗിൻ ഡോട്ട് എഛ് ടി എം ലെ ഈ സൌജന്യ വെബ്സൈറ്റ് ഫോറം ലേക്കാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ പോകുന്നതെന്ന് സിസ്റ്റം കരുതുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു ഫിഷിംഗ് വെബ്സൈറ്റാണ് ഇത് ടാർഗെറ്റുചെയ്ത ഫിഷിംഗ് വെബ്സൈറ്റാണ് അതിനാൽ ഇത് സിസ്റ്റവും മാനസിക മാതൃകയുമാണ് ഈ പിഎച്ച്ഡി പ്രബന്ധത്തിൽ അവർ യഥാർത്ഥത്തിൽ ആ അർത്ഥപരമായ തടസ്സം വെച്ചു ഇതാണ് നമ്മൾ ചെയ്യുന്നതെന്ന് സിസ്റ്റം കരുതുന്നതും സിസ്റ്റം ചെയ്യുന്നുവെന്ന് നിങ്ങൾ കരുതുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് അത് ഇത് യഥാർത്ഥത്തിൽ സെമാന്റിക് ബാരിയർ എന്ന് വിളിക്കപ്പെടും കാരണം അത്തരം ഉൽപ്പന്നങ്ങളിൽ വീഴാതിരിക്കാൻ ബുദ്ധിമുട്ടാണ് അതിനാൽ നിങ്ങൾ പറയുന്ന മാനസിക മാതൃക നോക്കുകയാണെങ്കിൽ ആരാണ് മറ്റൊരു കക്ഷി സന്ദേശത്തിന്റെ അർത്ഥമെന്താണ് അതിനാൽ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ നിങ്ങള്ക്ക് ലഭിച്ച ഇമെയിലിന്റെ അർത്ഥമെന്താണ് ആരാണ് സന്ദേശം അയക്കുന്നത് എന്നതിന്റെ അർത്ഥമെന്താണ് ഉപയോക്താവിന്റെ മാനസിക മാതൃകയാണ് വിവരങ്ങൾ വെബ്സൈറ്റ് ബുക്ക് ചെയ്യുന്ന വിദൂര യന്ത്രമാണ് സിസ്റ്റം മോഡൽ ഞാൻ അത്തരം വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ പോകുന്നു അതിനാൽ ഉപയോക്തൃ മാതൃക അല്ലെങ്കിൽ മാനസിക മാതൃകയാണ് സിസ്റ്റം മോഡൽ ഉപയോക്താവ് ചെയ്യുന്നുവെന്ന് സിസ്റ്റം കരുതുന്നു അവയ്ക്കിടയിലുള്ള തടസ്സത്തെയും അവ തമ്മിലുള്ള വ്യത്യാസത്തെയും ആണ് യഥാർത്ഥത്തിൽ സെമാന്റിക് ബാരിയർ എന്ന് വിളിക്കുന്നത് വലിയ തടസ്സം പ്രശ്നം എന്നിവ പരിഹരിക്കാൻ ബുദ്ധിമുട്ടാണ് അതിനാൽ ഇത് നമ്മൾ ഉപയോഗിക്കും ഫിഷിംഗ് എന്ന വിഭാഗത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കും അർത്ഥപരമായ ആക്രമണങ്ങളുടെ വിശാലമായ വിഭാഗം ഇനി പറയുന്നവയാണ് സുരക്ഷാ ആക്രമണങ്ങൾ ഫിസിക്കൽ സെമാന്റിക് സിൻറ്റാക്റ്റിക് ഇതാണ് ബ്രൂസ് ഷ്നിയർ ചെയ്തത് നിങ്ങൾ സെമാന്റിക് ആക്രമണങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഫിഷിംഗ് മ്യൂൾസ് നൈജീരിയൻ 41 തട്ടിപ്പുകൾ അതുപോലുള്ള ആക്രമണങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിലൂടെ കടന്നുപോകാൻ കഴിയും ഫിഷിംഗിലും ഒന്നിലധികം വിഭാഗങ്ങളുണ്ട് നിങ്ങളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഒരു ഉദാഹരണമാണ് ഐസിഐസിഐ ബാങ്കുകൾ നിങ്ങൾക്ക് ഒരു സന്ദേശം അയയ്ക്കുന്നു അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൌണ്ട് അവസാനിപ്പിക്കും വേരിഫികേഷൻ അത് പറയുന്നത് ഇത് ശരിക്കും നിങ്ങളാണോ എന്ന് പരിശോധിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദയവായി ക്ലിക്കുചെയ്ത് പരിശോധിക്കുക സെക്യൂരിറ്റി അലെർട് മാക് ഒഎസ് ന്റെ ഏറ്റവും പുതിയ പതിപ്പ് മൈക്രോസോഫ്ട് അപ്ഡേറ്റ് ചെയ്യുന്നു അതിനാൽ ഒരു അപ്ഡേറ്റ് ഉണ്ട് അതിൽ പറയുന്നു ഇതാ ലിങ്ക് ദയവായി പോയി അപ്ഡേറ്റ് ചെയ്യുക മോർട്ട്ഗേജ് വിവരങ്ങൾ നിങ്ങളുടെ മോർട്ട്ഗേജ് കുടിശ്ശിക അടുത്തുവരുന്നു ദയവായി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും ചെയ്യുക ഇത്തരത്തിലുള്ള എല്ലാ തരം ആക്രമണങ്ങളെയും ഫിഷിംഗ് ആക്രമണങ്ങൾ എന്ന് വിളിക്കുന്നു ഇന്ന് മിക്കവാറും എല്ലാ കമ്പനികളും ഫിഷിംഗിന്റെ ഈ ആക്രമണത്തിന് ഇരയാകുകയോ ഭാഗമാകുകയോ ചെയ്തേക്കാം അക്കാദമിക് സ്ഥാപനങ്ങൾ പോലും ഫിഷിംഗ് ആക്രമണങ്ങൾക്ക് ഇരയാകാം ഇത് ഒരു ലളിതമായ ഉദാഹരണം ആണ് ഒരു ഇമെയിൽ ഉണ്ട് ഒരു ഇമെയിലിന് 3 ഭാഗങ്ങളുണ്ട് അത് യഥാർത്ഥത്തിൽ നിയമാനുസൃതമായ ഇമെയിൽ ഉണ്ടാക്കുന്നു നിയമാനുസൃതമായ ഇമെയിലും ഫിഷിംഗ് ഇമെയിലും തമ്മിലുള്ള വ്യത്യാസം സബ്ജക്റ്റ് ലൈൻ ആണ് സന്ദേശത്തിലെ അടിയന്തിരത അവിടെയാണ് ഇത് സംഭവിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഫിഷിംഗ് ഇമെയിലിന്റെ ഭാഗമാണ് ഇത് കുറഞ്ഞത് ഒരാൾ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നു ബില്ലിംഗ് വകുപ്പിൽ നിന്നുള്ള സബ്ജക്ട് ഇബേ അടിയന്തര അറിയിപ്പ് നിങ്ങളുടെ അക്കൌണ്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഇബേ അക്കൌണ്ട് താൽക്കാലികമായി നിർത്തിവയ്കക്കുമെന്ന് അറിയിക്കുന്നതിൽ ഞങ്ങൾ ഖേദിക്കുന്നു തുടർന്ന് അവിടെ ഒരു ലിങ്ക് ഉണ്ട് നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നിങ്ങളെ കുസി ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകും ഇത് നിങ്ങളെ ഇബേ സൈൻ ഇൻ പേജിലേക്ക് കൊണ്ടുപോകും അത് വളരെ ക്ലാസിക്കൽ ഫിഷിംഗ് ആക്രമണത്തിന്റെ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള ഫിഷിംഗ് ആക്രമണങ്ങൾ മാറുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട് ഫിഷിംഗിനെക്കുറിച്ചുള്ള ചിലവ് സാമ്പത്തികശാസ്ത്രം ഇനി പറയുന്നവയാണ് ഫിഷിംഗ് വിഷയത്തിന് പ്രസക്തമായ ചില ചിലവുകൾ ഒരു ലക്ഷം ജീവനക്കാരുടെ സംഘടനയുടെ ചെലവ് ഫിഷിംഗ് ആക്രമണം ഉണ്ടായാൽ മാൽവെയർ അടങ്ങിയിരിക്കുന്നതിനുള്ള വില എത്രയാകും അതിനാൽ നിങ്ങൾ ചെലവ് നോക്കുകയാണെങ്കിൽ ഫിഷിംഗ് ആക്രമണത്തിന്റെ കാര്യത്തിൽ ഇത് വളരെ ഉയർന്നതാണ് മൊത്തം എക്സ്ട്രാപോളേറ്റഡ് ചെലവ് 3 മില്യൺ 76 3 മില്യൺ ഡോളർ അധികം ആണ് അതിനാൽ എല്ലാ വർഷവും ധാരാളം പണം ഇതിന് ആവശ്യമാണ് എഫ്ടിസിയും യുഎസിലെ മറ്റ് നിരവധി ഓർഗനൈസേഷനുകളും യഥാർത്ഥത്തിൽ ഫിഷിംഗിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നു ആന്റി ഫിഷിംഗ് വർക്കിംഗ് ഗ്രൂപ്പ് എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട് അത് ഫിഷിംഗിന്റെ പ്രശ്നത്തിലും അത് എങ്ങനെ കുറയ്ക്കാം എന്നതിലും പ്രത്യേകമായി പ്രവർത്തിക്കുന്നു അതിനാൽ ചില തരത്തിലുള്ള ഫിഷിംഗ് ആക്രമണങ്ങൾ ഇനി പറയുന്നവയാണ് ഈ അടുത്ത കാലത്തു നമ്മൾ ഇത് സംക്ഷിപ്തമായി പരാമർശിക്കുമെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്ന ഒരു ക്ലാസിക്കൽ ഫിഷിംഗിനെക്കുറിച്ച് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം ഈ കോഴ്സ് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അയയ്ക്കുന്ന ഇമെയിലാണ് ഞാൻ സംസാരിച്ച സന്ദർഭോചിതമായ ഫിഷിംഗ് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്ക് അയച്ച ആക്രമണമാണ് വൈയലിംഗ് വിഷിംഗ് നടക്കുന്നത് ഫോണിലൂടെയാണ് എസ്എംഎസ് വഴിയാണ് എസ്എംഎസ് ഇങ് ചെയ്യുന്നത് അപ്പോൾ സോഷ്യൽ ഫിഷിംഗ് എന്താണ് ഈ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അതാണ് സോഷ്യൽ ഫിഷിംഗ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ സോഷ്യൽ ഫിഷിംഗ് എന്നത് സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുള്ള വിവരങ്ങൾ നോക്കുക മാത്രമാണ് യഥാർത്ഥത്തിൽ ഫിഷ് ചെയ്യാൻ അത് ഉപയോഗിക്കുന്നു ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഞാൻ നിർവ്വചിച്ച മറ്റ് പല വിവരങ്ങളും നിങ്ങൾ ഒരു കോഴ്സ് എടുക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനല്ല ഫേസ്ബുക്ക് അക്കൌണ്ടിൽ നിന്ന് നിങ്ങൾ ചെയ്ത കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളും അതിനാൽ നമ്മൾ ഇതുവരെ കണ്ട വിഷയങ്ങൾ പഴയ ഡാറ്റയാണ് ഉപയോഗിക്കുന്നത് മെഡിക്കൽ ഹെൽത്ത് ഡാറ്റയും ലതന്യ സ്വീനിയുടെ Latanya Sweeneys പ്രവർത്തനവും ഉപയോഗിച്ച് എഫ്ബി വോട്ടർ ഡാറ്റയിൽ നിന്നുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ച് പ്രവൃത്തി നമ്മൾ കണ്ടു യൂണിവേഴ്സിറ്റി കാമ്പസിൽ നിന്ന് ചിത്രങ്ങൾ ശേഖരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതും നമ്മൾ കണ്ടു ഈ വിവരങ്ങൾ ശേഖരിക്കുകയും ഉപയോക്താവിനെക്കുറിച്ച് ചില വിധികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു കാമ്പസിൽ അവർ കാണുന്ന ആളുകളെ കണ്ടെത്തുന്നു ഫേസ്ബുക്കിൽ നിന്ന് അവർക്ക് ശരിയായ പ്രൊഫൈൽ ലഭിക്കും അതിനാൽ അതാണ് നമ്മൾ കണ്ട വിഷയങ്ങൾ എന്നാൽ സോഷ്യൽ ഫിഷിംഗ് എന്താണെന്ന് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല അതിനാൽ ഇതാ ഒരു ലക്ഷ്യം സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിന്ന് വ്യക്തിഗത വിവരങ്ങൾ ശേഖരിച്ച് ഫിഷിംഗ് ആക്രമണങ്ങൾ എങ്ങനെ നടത്താമെന്ന് കാണുക എന്നതാണ് ലക്ഷ്യം അതിനാൽ ഇത് സിഇഒയ്ക്ക് അയയ്ക്കുന്നതിനെക്കുറിച്ചല്ല ഇത് ഈ ക്ലാസിലെ വിദ്യാർത്ഥികൾക്ക് അയയ്ക്കുന്നതിനെക്കുറിച്ചല്ല നിങ്ങളുടെ സോഷ്യൽ നെറ്റ്വർക്ക് പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ശേഖരിക്കാനും അത് നിങ്ങൾക്ക് എതിരെ ഉപയോഗിക്കാനും കഴിയുമോ എന്നതാണ് ഫിഷിങ് ഈ വിവരങ്ങൾ എത്ര എളുപ്പത്തിലും ഫലപ്രദമായും ഉപയോഗിക്കാൻ കഴിയും വീണ്ടും വർഷങ്ങൾക്കുമുമ്പ് ചെയ്ത വളരെ ക്ലാസിക്കൽ വർക്ക് ഉണ്ട് അതിനാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർ അത് എങ്ങനെ ചെയ്തുവെന്ന് അറിയുന്നത് നന്നായിരിക്കും ഇത് എങ്ങനെ പോകുന്നുവെന്ന് കാണാൻ ഈ പഠനങ്ങൾ വീണ്ടും ചെയ്യാനാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ പഠനം യുഎസിൽ ചെയ്തു ചില ഉദാഹരണങ്ങൾ നൽകാം ഐ ലവ് യു വൈറസ് നിങ്ങളിൽ ചിലർക്ക് ഇത് അറിയാമായിരിക്കും അറ്റാച്ചുചെയ്ത പ്രണയലേഖനം പരിശോധിച്ച് അറ്റാച്ചുചെയ്ത ഫയലുകൾ കാണുക ഇത് എന്നിൽ നിന്നും വരുന്ന ഒരു ഇമെയിൽ ആണ് യഥാർത്ഥത്തിൽ പടർന്ന ആദ്യത്തെ വൈറസുകളിൽ ഒന്നായിരുന്നു അത് അതിനാൽ അവർ ചെയ്തത് അവർ പൊതുവായി ലഭ്യമായ വ്യക്തിഗത വിവരങ്ങൾ ലളിതമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ശേഖരിച്ചു എന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനാകും അതിനാൽ എൻഎൽടികെയെക്കുറിച്ച് നിങ്ങള്ക്ക് ചില ട്യൂട്ടോറിയലുകൾ ഉണ്ടാകും ഇത് എങ്ങനെ ഉപയോഗിക്കാം ഈ പോസ്റ്റിൽ നിന്ന് വരുന്ന ഈ വാചകം എങ്ങനെ വിശകലനം ചെയ്യാം എന്നൊക്കെ അതിനാൽ നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ശേഖരിക്കാനും അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ജനനത്തീയതി എന്താണെന്ന് കണ്ടെത്താനും കഴിയും ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിലാണ് ഇത് ചെയ്തത് ഞാൻ ഇന്ത്യാന യൂണിവേഴ്സിറ്റിയെ പരാമർശിക്കുകയായിരുന്നു ഈ ഡാറ്റ ഇൻഡ്യാന യൂണിവേഴ്സിറ്റിയുടെ വിലാസ പുസ്തകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇൻഡ്യാന സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ നടത്തിയ എല്ലാ പോസ്റ്റുകളും അവർ ശേഖരിച്ചു തുടർന്ന് അവർ 2005 ഏപ്രിലിൽ പഠനം ആരംഭിച്ചു 18 നും 24 നും ഇടയിൽ പ്രായമുള്ളവർക്കായി അവർ ഇത് ആരംഭിച്ചു ഇത് മിക്കപ്പോഴും ക്യാമ്പസിലെ വിദ്യാർത്ഥി ജനസംഖ്യയാണ് അതിനാൽ ഈ സ്ലൈഡും അടുത്ത സ്ലൈഡും ഇവിടെ ഒരു ടെക്സ്റ്റ് രൂപത്തിൽ ഇതിലൂടെ കടന്നുപോകുന്നു എന്നാൽ അവർ പിന്തുടരുന്ന നടപടിക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ കൊണ്ടുപോകുന്ന സ്ലൈഡ് ഇതാണ് ആദ്യം അവർ യഥാർത്ഥത്തിൽ പൊതു ഡാറ്റ ബ്ലോഗിംഗ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ എന്നിവ നോക്കുന്നു സോഷ്യൽ നെറ്റ്വർക്ക് ഡാറ്റാബേസിൽ സംഭരിച്ചിരിക്കുന്ന ഡാറ്റ അവർ ശേഖരിച്ചു ഈ ഡാറ്റ ഒരു ഇമെയിൽ സൃഷ്ടിക്കാൻ അവർ ഉപയോഗിക്കുന്നു ആലിസ്ഇന്ത്യാന ഇഡിയു ഇൽ നിന്നും ബോബ് ഇന്ത്യാന ഇഡിയു ൽ സമർപ്പിക്കുക ഇത് രസകരമാണ് ഹേയ് അവിടെയുള്ള യൂ ആർ എൽ ഉപയോഗിച്ച് ഇത് പരിശോധിക്കുക അതിനാൽ ഉപയോക്താവ് ലിങ്കിൽ ക്ലിക്കുചെയ്യുമ്പോൾ അവിടെ നിന്ന് വിവരങ്ങൾ ബോബിൽ നിന്ന് ഇന്ത്യൻ സർവകലാശാലയിലെ സുഹൃത്തുക്കൾക്ക് ഒരു ഇമെയിലായി ലഭിക്കും ഇത് ഇന്ത്യാന യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലേക്ക് പോകുന്നു അത് യഥാർത്ഥത്തിൽ പ്രാമാണീകരണ വെബ്ബും ആധികാരികത രേഖകളും പരിശോധിക്കുന്നു ഇത് ട്രാക്കുചെയ്യുകയും നിങ്ങളെ ഒരു യൂസർ നെയിം പാസ്വേഡ് പേജിലേക്കു കൊണ്ടുപോകുകയും ചെയ്യും അവർ യൂസർ നെയിം ഉം പാസ്വേഡും നൽകുമ്പോൾ അത് യൂസർ നെയിം ഉം പാസ്വേഡും പരിശോധിക്കുന്നത് ഉചിതമാണോ എന്ന് പരിശോധിക്കുന്നു ആധികാരികതയെ നിയന്ത്രിക്കുകയും തിരികെ വരികയും സെർവർ ഓവർലോഡുചെയ്ത് വീണ്ടും ശ്രമിക്കുക സന്ദേശം അയയ്ക്കുകയും ചെയ്യുന്നു പ്രാമാണീകരണം പരാജയപ്പെട്ടു അതിനാൽ അത് മുഴുവൻ പ്രക്രിയയുടെ രണ്ട് ഫലങ്ങളാണ് അത് വിജയമാണ് സെർവർ അമിതമായി ലോഡു ചെയ്യുന്നു വീണ്ടും ഒരു അംഗീകാരം പരാജയപ്പെട്ടു സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്തുന്നതിന് അവർ പിന്തുടർന്ന ഒരു പ്രക്രിയയാണിത് ഇത് ഈ ഇമെയിലുകൾ അയയ്ക്കുകയും ആ പേജിലേക്ക് പോകുന്നതിന് ചില ഉപയോഗങ്ങൾ നേടുകയും ചെയ്യുന്നു അതിനുശേഷം ഈ പഠനം നടത്തിയ നിരവധി ആളുകൾ 2007 8 9 വർഷങ്ങളിൽ നിങ്ങൾ എന്റെ സ്വന്തം പഠനം നോക്കിയാലും മതി ഫിഷിംഗ് ഇമെയിലുകൾ അയയ്ക്കുകയും ആളുകൾ എങ്ങനെ പെരുമാറുന്നുവെന്ന് കാണുകയും ചെയ്യുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് അതിനാൽ അവർ ചെയ്ത രണ്ട് കാര്യങ്ങളാണിവ തീർച്ചയായും അത് പരീക്ഷണാത്മക ഗവേഷണമായിരുന്നു അതിനാൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഇമെയിൽ ഐഡിയിൽ നിന്നുള്ള ഇമെയിൽ ഇങ്ങനെയാണ് താരതമ്യം ചെയ്യാൻ അവർ ശ്രമിച്ചത് എന്നാൽ ഒരു നിയന്ത്രണ ലക്ഷ്യമായ ഒരു അജ്ഞാത വ്യക്തിയിൽ നിന്നാണ് എനിക്ക് ഇന്ത്യാന ഇമെയിൽ ഐഡിയിൽ നിന്ന് ഒരു ഇമെയിൽ ലഭിക്കുകയാണെങ്കിൽ എന്റെ കാര്യത്തിൽ ഡൽഹി ഐഐഐടിയിൽ നിന്നുള്ള ഒരാളിൽ നിന്ന് എനിക്ക് ഒരു ഇമെയിൽ ലഭിക്കും എന്നാൽ എനിക്ക് ആ വ്യക്തിയെ അറിയില്ല കാരണം അത് എനിക്ക് സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ നേടാൻ കഴിയുന്ന ഒന്നാണ് പരീക്ഷണാത്മക ഗ്രൂപ്പ് ഇൻഡ്യാന യൂണിവേഴ്സിറ്റിയിലെ ഒരു സുഹൃത്തിൽ നിന്നാണ് ഞാൻ ഇതിനകം സുഹൃത്തുക്കളുമായി ഏതെങ്കിലും വിധത്തിൽ കണക്റ്റുചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റുകളും ട്വിറ്ററിൽ ഈ വ്യക്തിയെ പിന്തുടരുന്നു ട്വിറ്ററിലെ പോസ്റ്റിൽ ഞാൻ അവരെ പരാമർശിക്കുന്നു അതിനാൽ ഇതെല്ലാം പരീക്ഷണാത്മക സജ്ജീകരണം കണ്ടെത്താൻ സഹായിക്കുന്നു അതിനാൽ അതേ രീതിശാസ്ത്രം ഇവിടെ ഉണ്ടായിരുന്ന ചാർട്ട് ആണ് വെർബോസ് ബ്ലോഗിംഗ് സോഷ്യൽ നെറ്റ്വർക്ക് മറ്റ് പൊതു ഡാറ്റ ശേഖരിക്കുന്നു ഡാറ്റ പരസ്പരബന്ധിതവും ഒരു റിലേഷണൽ ഡാറ്റാബേസിൽ സൂക്ഷിക്കുന്നു വഞ്ചനാപരമായ ഇമെയിൽ സന്ദേശങ്ങൾ തയ്യാറാക്കാൻ ഹ്യൂറിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു ബോബിന് സന്ദേശം അയച്ചു ബോബ് ഇമെയിലിൽ അടങ്ങിയിരിക്കുന്ന ലിങ്ക് പിന്തുടരുന്നു പങ്കിടാത്ത റീഡയറക്റ്റിലേക്ക് അയയ്ക്കുന്നു ബോബിനെ ഒരു ആക്രമണകാരി വുഫോ ഡോട്ട് കോമി whuffo com ലേക്ക് അയയ്ക്കുന്നു ബോബ് തന്റെ യൂണിവേഴ്സിറ്റി യോഗ്യതകൾക്കായി അപേക്ഷ അയക്കുന്നു ബോബ് യോഗ്യതകൾ സർവ്വകലാശാലയുടെ ആധികാരികത ഉപയോഗിച്ച് പരിശോധിക്കുകയും ബോബ് വിജയകരമായി ഫിഷ് ചെയ്യപെടുകയും ചെയ്തു പക്ഷെ ഈ സെഷനിൽ ബോബിനെ ഫിഷ് ചെയ്തിട്ടില്ല അയാൾക്ക് വീണ്ടും ശ്രമിക്കാം അതാണ് വാസ്തുവിദ്യയുടെ വെർബോസ് അല്ലെങ്കിൽ മുമ്പ് സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന പരീക്ഷണാത്മക രീതിശാസ്ത്രം സോഷ്യൽ ഫിഷിംഗിന്റെ അടിസ്ഥാനത്തിൽ ഗവേഷകർ ശേഖരിച്ച ഡാറ്റയുടെ വിശകലനം തുടരുന്നത് ഇവിടെയാണ് അതിനാൽ ഈ പട്ടികയിൽ നമ്മൾ കാണുന്നത് നിയന്ത്രണ അവസ്ഥയും സാമൂഹിക അവസ്ഥയും പരീക്ഷണാത്മക അവസ്ഥയുമാണ് വരികളിലും നിരകളിലും വിജയകരമായി ലക്ഷ്യമിടുന്ന ശതമാനവും ആത്മവിശ്വാസ ഇടവേളകളാണ് സക്സെസ്ഫുൾ എന്നതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ എത്ര പേർക്ക് ആ ഇമെയിലുകൾ ലഭിച്ചുവെന്നാണ് യഥാർത്ഥത്തിൽ ഈ ഇമെയിൽ അയച്ച ആളുകളുടെ എണ്ണമാണ് ടാർഗെറ്റെഡ് പെർസെന്റജ് എന്നത് ടാർഗെറ്റെഡ് ഉം സക്സെസ്ഫുൾ ന്റെയും അനുപാതമാണ് അതിനാൽ നമുക്ക് ചില ഫലങ്ങൾ നോക്കാം അതിനാൽ വ്യക്തമായി നിയന്ത്രിക്കുന്ന ഗ്രൂപ്പ് ഉയർന്നതാണ് അതായത് പങ്കെടുക്കുന്നവരിൽ 16 ശതമാനം പേരും ഇത്തരത്തിലുള്ള ഇമെയിലുകളിൽ വീഴുന്നു പൊതുവേ ഇത് വളരെ ഉയർന്നതാണ് പങ്കെടുക്കുന്നവരിൽ 16 ശതമാനം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഇമെയിലിൽ വീണുവെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് ഞാൻ കരുതുന്നത് ഇത് ഒരു മോശം നിലയല്ല എന്നാൽ ഇവിടെയുള്ള നേട്ടം അല്ലെങ്കിൽ സന്ദർഭം മനസ്സിൽ സൂക്ഷിക്കുക എന്നതാണ് അയച്ചയാളുടെ ഇമെയിൽ ഇൻഡ്യാന യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളതാണ് ഈ ശതമാനം വളരെ ഉയർന്നതിന്റെ കാരണം അതാണെന്ന് ഞാൻ കരുതുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് പികെ ഐ ഐ ടി ഐഎൻ pkiitd in നിന്നും പികെഎബിസി സിഓഎം pkabc com നിന്നും ഒരു ഇമെയിൽ ലഭിക്കുകയാണെങ്കിൽ പികെ ഐ ഐ ടി ഐഎൻ എന്ന് പറയുന്ന ഒരു ഇമെയിൽ ക്ലിക്കുചെയ്യാനും അതിലൂടെ പോകാനുമുള്ള ഉയർന്ന സാധ്യത ആണ് ഉള്ളത് തീർച്ചയായും സാമൂഹിക അവസ്ഥയിൽ പങ്കെടുക്കുന്നവരിൽ 72 ശതമാനം പേരും ഇമെയിലിൽ ക്ലിക്കുചെയ്ത് ഇമെയിലിൽ ആവശ്യപ്പെടുന്നതെന്തും ചെയ്യുന്നു ഈ ശതമാനം 72 ശതമാനത്തേക്കാൾ കൂടുതലാണെന്ന് മറ്റ് പഠനങ്ങൾ കാണിക്കുന്നു ഈ വെബ്സൈറ്റിലേക്ക് ആളുകൾ എങ്ങനെയാണ് ആധികാരികത നേടുന്നത് എന്നതിന്റെ വിജയ നിരക്ക് കാണാൻ കൂടുതൽ ഫലങ്ങൾ ആവശ്യമാണ് അതിനാൽ വീണ്ടും ചില രസകരമായ ഫലങ്ങൾ ഇതാ എഴുപത് ശതമാനം പ്രാമാണീകരണങ്ങൾ ഉണ്ട് അതിനാൽ ഈ ഗ്രാഫ് എന്താണ് കാണിക്കുന്നത് ഒരു ഗ്രാഫിന് ഉണ്ട് അതിൽ എക്സ് ആക്സിസ് സമയം ആണ് അതായത് വൈകുന്നേരം 6 മണി രാവിലെ 6 12 ഉച്ച 6 മണി എന്നിങ്ങനെ യഥാർത്ഥത്തിൽ പ്രാമാണീകരണത്തിനായി ക്ലിക്കുചെയ്ത ആളുകളുടെ ശതമാനമാണ് Y ആക്സിസ് അതിനാൽ പച്ച നിങ്ങൾക്ക് സഞ്ചിത ആധികാരികത കാണിക്കുന്നു റെഡ് ലൈൻ ഒരു മണിക്കൂറിൽ ആധികാരികത കാണിക്കുന്നു നീല ലൈൻ മണിക്കൂറിൽ എത്ര സന്ദർശനങ്ങൾ ഉണ്ട് എന്ന് കാണിക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി എന്താണ് ഇത് അർത്ഥമാക്കുന്നത് ഈ വെബ്സൈറ്റിലേക്ക് പോയ ആളുകളുടെ എണ്ണം ബ്ലൂ ലൈൻ കാണിക്കുന്നു യഥാർത്ഥത്തിൽ പ്രാമാണീകരിച്ച ആളുകളുടെ എണ്ണം റെഡ് ലൈൻ കാണിക്കുന്നു ഇതിനർത്ഥം അത് എല്ലായ്പ്പോഴും താഴെയായിരിക്കും എന്നാണ് ആദ്യ 12 മണിക്കൂറിനുള്ളിൽ 70 ശതമാനം ആധികാരികത സംഭവിക്കുന്നുവെന്ന് ഇത് വ്യക്തമായി കാണിക്കുന്നു അതിനാൽ നിങ്ങൾ ഗ്രാഫിന്റെ ആദ്യ ഭാഗം നോക്കുകയാണെങ്കിൽ ചുവന്ന രേഖയായ 70 ശതമാനം പ്രാമാണീകരണങ്ങൾ യഥാർത്ഥത്തിൽ ആദ്യത്തെ 12 മണിക്കൂറിലാണ് നടക്കുന്നത് ഈ ഇമെയിലുകൾ ലഭിക്കുമ്പോൾ ആളുകൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ പെടുന്നത് അടിയന്തിരതാബോധം ഉള്ളതുകൊണ്ടാണ് ഒരു മത്സരബോധം ഉണ്ട് അത് ഉടനടി പൂർത്തിയാക്കുകയും ആ അടിയന്തിരത ഈ ഇമെയിലിൽ ഇടുകയും ചെയ്യുന്നു ഇബേ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ച ഉദാഹരണം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അവർ അയച്ച ഒരു ഇമെയിലിന് ഒരു സബ്ജക്റ്റ് ലൈനും അടിയന്തര അറിയിപ്പും ഉണ്ട് എന്നാൽ ഇത് യഥാർത്ഥത്തിൽ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്നു എടുത്തുമാറ്റപ്പെടുന്ന ഫിഷിംഗ് വിജയകരമാണ് അതായത് എത്രയും വേഗം അല്ലെങ്കിൽ കഴിയുന്നത്ര വേഗത്തിൽ വെബ്സൈറ്റുകൾ നീക്കംചെയ്യുകയാണെങ്കിൽ ഈ വെബ്സൈറ്റിലേക്ക് പോകുന്ന നിരവധി ഉപയോക്താക്കൾ യഥാർത്ഥത്തിൽ നിർത്താൻ സാധ്യതയുണ്ട് വെബ്സൈറ്റുകൾ നീക്കം ചെയ്തില്ലെങ്കിൽ ഈ ഉപയോക്താക്കൾ യഥാർത്ഥത്തിൽ വ്യാജ വെബ്സൈറ്റിലേക്ക് പോയി മറ്റ് വ്യക്തിഗത വിവരങ്ങൾ നൽകുന്നു വീണ്ടും ഈ ഇമെയിലുകളോട് ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു ഏത് തലത്തിലുള്ള പ്രാമാണീകരണമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് അവരുടെ അക്കൌണ്ട് വിശദാംശങ്ങൾ നൽകുന്ന ആളുകളുടെ ശതമാനം എത്രയാണ് ഈ ഗ്രാഫിൽ അവർ കാണിക്കുന്നത് ഇതൊക്കെയാണ് അതിനാൽ ഈ ഗവേഷണം യഥാർത്ഥത്തിൽ ആ വിഷയം എന്താണെന്ന് കാണിക്കുന്ന മറ്റൊരു രസകരമായ വിശകലനം ഇതാണ് യഥാർത്ഥത്തിൽ പ്രാമാണീകരിക്കാൻ പങ്കെടുക്കുന്നവർ പലതവണ ശ്രമിച്ചു ബ്ലൂ ലൈൻ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആവർത്തിച്ചുള്ള ആധികാരികതയും ചുവന്ന ലൈൻ ആധികാരിക ഉപയോക്താക്കളുടെ പുതുക്കലും കാണിക്കുന്നു സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യാൻ തങ്ങൾക്ക് സാധിക്കുമോ എന്ന് പുതുക്കാനും അവർ എന്താണ് ശ്രമിക്കുന്നത് നിങ്ങൾ ആർക്കിടെക്ചർ ഓർക്കുന്നുവെങ്കിൽ ആ അവസാന ഔട്ട്പുട്ട് രണ്ടാണ് അതിനാൽ ഞാൻ തിരികെ പോകട്ടെ പഠനത്തിന്റെ അന്തിമഫലം രണ്ട് തലങ്ങളിലാണ് ഈ പ്രാമാണീകരണം പരാജയപ്പെട്ടു സെർവർ ഓവർലോഡ് ചെയ്തു അതിനാൽ അവർ വീണ്ടും ശ്രമിക്കുന്നു അതിനാൽ ഉപയോക്താവിന് ഇത് കാണുമ്പോൾ സിസ്റ്റത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് അവർക്ക് തോന്നും ഞാൻ അത് പുതുക്കട്ടെ ഞാൻ വീണ്ടും ശ്രമിക്കട്ടെ അതാണ് ഇവിടെ സംഭവിക്കുന്നത് അതിനാൽ ഓവർലോഡ് സന്ദേശം കാണിച്ചതിനാൽ അവർ വീണ്ടും ശ്രമിച്ചു ഓവർലോഡ് സന്ദേശം കാണിച്ചിരിക്കുന്നതിനാൽ ധാരാളം ആളുകൾ യഥാർത്ഥത്തിൽ ശ്രമിച്ചു അതിനാൽ ഇത് അടിസ്ഥാനപരമായി വഞ്ചിക്കപ്പെടുന്ന ഉപയോക്താക്കളുടെ പരിധി സൂചിപ്പിക്കുന്നു നിങ്ങൾ നീല രേഖ കാണുന്നുവെങ്കിൽ ആളുകൾ യഥാർത്ഥത്തിൽ ഈ വെബ്സൈറ്റിന് ആവർത്തിച്ച് ആധികാരികത നൽകുന്നു അത് യഥാർത്ഥത്തിൽ ആ പ്രാമാണീകരണ പിശക് കാണിക്കുന്നു ചില ആളുകൾ യഥാർത്ഥത്തിൽ 80 തവണ വരെ ശ്രമിച്ചു അതിനാൽ X ആക്സിസ് നിങ്ങൾക്ക് ലോഗ് സ്കെയിൽ ഇന്റെ എണ്ണം കാണിക്കുന്നു Y ആക്സിസ് നിങ്ങൾക്ക് വിഷയങ്ങളുടെ എണ്ണം കാണിക്കുന്നു വെബ്സൈറ്റിൽ പ്രവേശിക്കാൻ 80 ശതമാനം ആളുകളും 80 തവണ ശ്രമിച്ചുവെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാം ഇത് കാണിക്കുന്ന ഒരേയൊരു പഠനമല്ല ഇത് ഒരുപക്ഷേ ക്ലാസിക്കൽ പഠനമാണ് ആദ്യ പഠനങ്ങളിൽ ഒന്ന് ഇത് കാണിച്ചുതന്നു എന്നാൽ പിന്നീട് പല തരത്തിലുള്ള പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരം ആവർത്തിച്ചുള്ള ആധികാരികത ഉപയോക്താക്കളിൽ സംഭവിക്കുന്നുവെന്ന് കാണിച്ചു അനുപാതം ഇതാണ് ലിംഗത്തിന്റെ വിശകലനം ഇതാണ് അവർക്ക് ഇൻഡ്യാന യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി വിശദാംശങ്ങൾ ഉള്ളതിനാൽ അവർക്ക് യഥാർത്ഥത്തിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും കണ്ടെത്താൻ കഴിയും അതാണ് പങ്കെടുക്കുന്നവരുടെ ലിംഗവിവരങ്ങൾ അതിനാൽ ഈ പട്ടികയിൽ വരികൾ നിങ്ങളെ ആൺ പെൺ ആരിൽ നിന്നും പുരുഷൻ സ്ത്രീ എന്നിവരെ ആർക്കും കാണിക്കുന്നു ഇത് അടിസ്ഥാനപരമായി പറയുന്നത് ഇമെയിൽ വരുന്നുണ്ടെങ്കിൽ വീണ്ടും പഠനം സജ്ജീകരിച്ചതായി നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അവർ ഡാറ്റ ശേഖരിച്ചു അവർ ഇമെയിൽ തയ്യാറാക്കിയിട്ടുണ്ട് അവർ ഇമെയിൽ തയ്യാറാക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ഈ പരീക്ഷണങ്ങളെല്ലാം നടത്തുകയായിരുന്നു പുരുഷനിൽ നിന്ന് അയച്ചാൽ ആണിനും പെണ്ണിനും ഇമെയിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കും അതിനാൽ സ്ത്രീകൾ കൂടുതൽ ഇരകളാകുന്നു എന്ന് ഇത് കാണിക്കുന്നു മൂന്നാമത്തെ നിരയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും സ്ത്രീ പുരുഷനേക്കാൾ വളരെ ഉയർന്നതാണ് എന്ന് ഇമെയിൽ എവിടെ നിന്ന് വരുന്നു എന്നത് പ്രശ്നമല്ല ഇത്തരം ആക്രമണങ്ങൾക്ക് സ്ത്രീ കൂടുതൽ ഇരയാകുമെന്ന് തോന്നുന്നു 18294 പുരുഷന്മാരും 19527 സ്ത്രീകളും പഠനത്തിന്റെ ഭാഗമായിരുന്നു എതിർലിംഗത്തിൽ നിന്നുള്ളവരാണെങ്കിൽ അത് കൂടുതൽ വിജയകരമായിരുന്നു ആൺ മുതൽ പെൺ വരെ വരി 2 ഉം പിന്നീട് 3 78 ശതമാനം നിരയും സ്ത്രീയിൽ നിന്ന് പുരുഷന്മാരിൽ നിന്ന് 68 ശതമാനവും ആണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാം അതിനാൽ 68 ആയ ഈ സംഖ്യ പുരുഷന്റെ നിരയിലെ ഏറ്റവും ഉയർന്നതാണ് 78 എന്നത് സ്ത്രീകളുടെ നിരയിലെ ഏറ്റവും ഉയർന്നതാണ് ഇത് അടിസ്ഥാനപരമായി ഒരു പുരുഷന് സ്ത്രീയിൽ നിന്ന് ഒരു ഇമെയിൽ ലഭിക്കുകയും സ്ത്രീക്ക് ഒരു പുരുഷനിൽ നിന്ന് ഇമെയിൽ ലഭിക്കുകയും ചെയ്താൽ അത് യഥാർത്ഥത്തിൽ ഉയർന്നതാണെന്ന് കാണിക്കുന്നു വിപരീത ലിംഗത്തിൽ നിന്നാണ് ഇമെയിൽ വന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ആധികാരികമാക്കാനും വിവരങ്ങൾ നൽകാനുമുള്ള സാധ്യതയുടെ ശതമാനം വളരെ കൂടുതലാണ് ഫിഷിംഗ് ആക്രമണങ്ങൾ അല്ലെങ്കിൽ ദുർബലമായ ഫിഷിംഗ് ആക്രമണങ്ങൾ വിജയകരമാണെന്ന് കാണിക്കുന്നതിനുള്ള വളരെ രസകരമായ ഒരു നിഗമനമാണിത് എന്നാൽ ഇമെയിലുകൾ എതിർ ലിംഗത്തിൽ നിന്നുള്ളതാണെങ്കിൽ കൂടുതൽ വിജയകരമാണ് കൂടാതെ ഈ ഫലങ്ങൾ ഇമെയിൽ ഇതര പശ്ചാത്തലത്തിൽ പോലും ആവർത്തിക്കാനാകുമെന്ന് ഉറപ്പാണ് അവർക്ക് ധാരാളം ഡെമോഗ്രാഫിക്സ് ഡാറ്റ ഉണ്ടായിരുന്നതിനാൽ അവർ ഭാഗങ്ങളായിരുന്ന വകുപ്പുകളെക്കുറിച്ചുള്ള പ്രായ വിഭാഗത്തിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഇതാണ് ഇളയ ലക്ഷ്യങ്ങൾ കൂടുതൽ ദുർബലമാണെന്ന് നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായി കാണാൻ കഴിയും പഠനത്തിൽ ആധികാരികത ഉറപ്പുവരുത്തുന്നതിനായി ചെറുപ്പക്കാരായ പങ്കാളികൾ കൂടുതൽ ദുർബലരാണ് ഫ്രഷ്മെൻ കാണാം ഓറഞ്ചും നീല വരയുമാണ് ഇവിടെ വ്യത്യാസം ഓറഞ്ച് നിങ്ങൾക്ക് പരീക്ഷണാത്മക സജ്ജീകരണമായ സോഷ്യൽ ഫിഷിംഗ് കാണിക്കുന്നു നീല നിങ്ങൾക്ക് നിയന്ത്രണ അവസ്ഥ കാണിക്കുന്നു ഫ്രഷ്മെൻ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിലും സാമൂഹികവും നിയന്ത്രണവും തമ്മിലുള്ള വ്യത്യാസം ഫ്രഷ്മെൻ ന്റെ കാര്യത്തിൽ ഏറ്റവും ഉയർന്നതാണ് നിങ്ങൾ മുകളിലേക്ക് പോകുന്തോറും അത് കുറയുന്നു അതിനാൽ ജൂനിയറും സീനിയറും രണ്ടാം വർഷത്തിലാണ് ഇത് അൽപ്പം ഉയർന്നതായി കാണപ്പെടുന്നു പക്ഷേ നിങ്ങൾ രണ്ടാം വർഷ വിദ്യാർത്ഥികളെയും ഫ്രഷ്മെൻ യും ഒരുമിച്ച് ചേർത്താൽ അടിസ്ഥാനപരമായി പറയുന്നത് ഫ്രഷ്മെൻ അത്തരം ആക്രമണങ്ങൾക്ക് കൂടുതൽ ഇരയാകുന്നു എന്നാണ് അതുപോലെ പങ്കെടുക്കുന്നവർ ഏത് വകുപ്പിൽ നിന്നാണ് വന്നതെന്ന് അവർക്കും അറിയാം അതിനാൽ യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ഒരു ഗ്രാഫ് സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞു വീണ്ടും ഓറഞ്ച് സാമൂഹിക അവസ്ഥയും നീല നിയന്ത്രണ വ്യവസ്ഥയും കാണിക്കുന്നു ഇത് വർണ്ണ സ്കീമിന്റെ അതേ നിറം ആണ് ഇത് അടിസ്ഥാനപരമായി കാണിക്കുന്നത് നിയന്ത്രണവും പരീക്ഷണാത്മകവും തമ്മിലുള്ള എല്ലാ പ്രധാന കാര്യങ്ങളും പ്രധാനമാണെന്ന് കാണിക്കുന്നു ഇത് കാമ്പസിലെ ഏത് വിഭാഗവും പ്രശ്നമല്ല സാമൂഹികവും നിയന്ത്രണങ്ങളും തമ്മിലുള്ള വ്യത്യാസം വളരെ ഉയർന്നതാണ് നിയന്ത്രണ വ്യവസ്ഥയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സാമൂഹിക ആളുകൾ കൂടുതൽ വീഴുന്നു ശാസ്ത്ര വിഭാഗത്തിന് പരമാവധി വ്യത്യാസമുണ്ടെന്നും ഇത് കാണിച്ചു നമ്മൾ ശാസ്ത്രം നോക്കുകയാണെങ്കിൽ 80 ശതമാനം സാമൂഹ്യത്തിനും 0 ശതമാനം നിയന്ത്രണ വ്യവസ്ഥയ്ക്കുമാണ് അതിനാൽ ശാസ്ത്രവും സാമൂഹികവും നിയന്ത്രണവും തമ്മിൽ പരമാവധി വ്യത്യാസമുണ്ടെന്ന് ഇത് കാണിക്കുന്നു സാങ്കേതികവിദ്യയ്ക്ക് ഏറ്റവും ചെറിയ വ്യത്യാസമുണ്ടെന്നതും വ്യക്തമായിരുന്നു സാങ്കേതികവിദ്യ പഠിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് സാധ്യത കുറവാണ് ഇത് ഇവിടെ ഏകദേശം 36 ശതമാനമാണ് ഇത് സാമൂഹികവും നിയന്ത്രണ വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസമാണ് അതിനാൽ ഏത് തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കും വിദ്യാർത്ഥികളിലേക്കും പോകുന്നുവെന്നും ഏത് തരത്തിലുള്ള വകുപ്പുകളാണ് യഥാർത്ഥത്തിൽ ഈ ഫിഷിംഗ് ആക്രമണങ്ങൾക്ക് ഇരയാകുന്നതെന്നും ഗവേഷണം കണ്ടെത്തി പൊതുവേ ഈ പഠനത്തിന് പങ്കെടുക്കുന്നവരിൽ നിന്ന് ധാരാളം പ്രതികൂല പ്രതികരണങ്ങൾ ലഭിച്ചു ഇത് അധാർമികവും അനുചിതവും നിയമവിരുദ്ധവുമായിരുന്നു കൂടാതെ ഇത് വഞ്ചനാപരവുമാണ് ഗവേഷകരെ പുറത്താക്കി സൈക്കോളജിക്കൽ പങ്കാളികൾ മാനസിക ചെലവ് ഉണ്ടെന്ന് അവകാശപ്പെട്ടു കാരണം അവർ സമ്മർദ്ദത്തിലാണെന്ന് ഞാൻ കരുതുന്നു പഠനം നടക്കുന്നതിനെക്കുറിച്ചും അതിലുള്ള കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് അറിയില്ലായിരുന്നു രസകരമായ കാര്യം എന്തെന്നാൽ ഇതിനെ കുറിച്ച് ബ്ലോഗുകൾ എഴുതിയ ആളുകളുണ്ടായിരുന്നു പഠനത്തെക്കുറിച്ച് പ്രതികരണങ്ങൾ എഴുതിയ ആളുകൾ അവർ പഠനത്തിന്റെ ഭാഗമല്ലെന്നും മറ്റൊരാളുടെ ആക്രമണത്തിൽ വീണുപോയില്ലെന്നും പറഞ്ഞു ഞാൻ ദുർബലനാണെന്ന് സമ്മതിക്കുന്നതും യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടാണെന്ന് ഇത് കാണിക്കുന്നു ഇമെയിലുകളെ വഞ്ചിക്കുന്നതിലും പൊതുവായി ലഭ്യമായ വിവരങ്ങളെ കുറച്ചുകാണുന്നതിലും ഇത് ഒരു തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ കരുതുന്നു അതിനാൽ നിങ്ങളെക്കുറിച്ചുള്ള പൊതുവായി ലഭ്യമായ വിവരങ്ങൾ നിങ്ങൾക്കെതിരെ എത്ര മോശമായി ഉപയോഗിക്കാമെന്ന് പങ്കെടുക്കുന്നവർക്ക് മനസ്സിലായില്ല ഇത് ആദ്യ പഠനങ്ങളിൽ ഒന്നായതിനാൽ ഈ പ്രതികരണങ്ങൾ യഥാർത്ഥത്തിൽ രസകരമായിരുന്നു പക്ഷേ ഈ പഠനം വീണ്ടും നടത്തിയ ആളുകളുണ്ട് ഇതിനുശേഷം ആളുകൾ ഫിഷിംഗ് ഇമെയിലുകളിൽ എങ്ങനെ വീഴുന്നുവെന്ന് വീണ്ടും പഠിച്ചു അടിസ്ഥാനപരമായി ഫലങ്ങൾ കാണിക്കുന്നത് വിപുലമായ വിദ്യാഭ്യാസ പ്രചാരണങ്ങൾ ആവശ്യമാണ് എന്നതാണ് ബ്രൌസർ സൊല്യൂഷൻസ് എടുക്കുന്നത് വളരെ വേഗത്തിലായിരിക്കണം ഡിജിറ്റൽ ഒപ്പിട്ട ഇമെയിലുകൾ കൂടുതൽ പ്രചാരത്തിലാകണം തീർച്ചയായും ഈ ആക്രമണങ്ങൾ കൂടുതൽ വിജയകരമാക്കുന്നതിന് ഓൺലൈൻ സോഷ്യൽ മീഡിയ കൂടുതൽ വിവരങ്ങൾ നൽകുന്നു അതിനാൽ ആളുകൾ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ കൂടുതൽ വ്യക്തിഗത വിവരങ്ങൾ പങ്കിടുന്നത് അവസാനിപ്പിക്കണം ഡിജിറ്റലായി ഒപ്പിട്ട ഇമെയിലുകൾ കൂടുതൽ വ്യാപകമാകണം ബ്രൌസർ പരിഹാരങ്ങൾ നിർമ്മിക്കണം ഈ ഇമെയിൽ യഥാർത്ഥത്തിൽ ഫിഷിംഗ് ആണെന്നും ഈ വെബ്സൈറ്റ് യഥാർത്ഥത്തിൽ മലീഷ്യസ് ആണെന്നും ഈ വെബ്സൈറ്റ് വഞ്ചനാപരമായ വെബ്സൈറ്റാണെന്നും പറയാൻ തീർച്ചയായും വിദ്യാഭ്യാസ പ്രചാരരണങ്ങൾ കൊണ്ട് സാധിക്കും ഞാൻ ചർച്ച ചെയ്ത ഈ ഗവേഷണത്തിന് ചില പരാമർശങ്ങൾ ആവശ്യമാണ് അതോടെ ഞാൻ ആഴ്ച 7 നിർത്തുന്നു യഥാർത്ഥത്തിൽ 8 ാം ആഴ്ചയിൽ കൂടുതൽ ആവേശകരമായ വിഷയങ്ങൾ നമ്മൾ നോക്കും